ഈ മൊഡ്യൂൾ ഉപസംഹരിക്കാൻ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ സാമാന്യവൽക്കരിക്കാൻ എനിക്ക് അന്തിമ നിരീക്ഷണങ്ങൾ മാത്രമേയുള്ളൂ ആദ്യത്തെ ചോദ്യം മാധ്യമം മാഗ്നെറ്റിക് ആയിരുന്നെങ്കിൽ അതായത് μ സ്പേസിന്റെ ഒരു ഫംഗ്ഷനായിരുന്നുവെങ്കിൽ അതിനാൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് ഓർക്കുക നമ്മൾ ഈ ആദ്യ സമവാക്യം എടുത്തു നമ്മൾ എന്താണ് ചെയ്തത് വിദ്യാർത്ഥി കേൾ നമ്മൾ കേൾ എടുത്തു അങ്ങനെ നമ്മൾ ∇ × ∇ × E→r ചെയ്തു അത് അടിസ്ഥാനപരമായി പറഞ്ഞത് jω∇ × μH→ ആണെന്നും അതൊരു പ്രശ്നമാണ് കാരണം എനിക്ക് ∇ × H→ അറിയാം ∇ × μH→ എനിക്കറിയില്ല അതിനാൽ ഞാൻ ഏത് പ്രക്രിയ ചെയ്താലും എനിക്ക് അത് അതേപടി പിന്തുടരാൻ കഴിയില്ല അപ്പോൾ ഈ പ്രശ്നത്തിൽ നമ്മൾ എന്തുചെയ്യണമെന്ന് നിങ്ങൾ നിർദ്ദേശിക്കുന്നു നിങ്ങൾക്ക് എപ്സിലോണിനൊപ്പം മു എടുക്കാമോ നമ്പർ μ ഒരു സമവാക്യത്തിലും ε മറ്റൊരു സമവാക്യത്തിലുമാണ് രണ്ടിനെയും നമ്മൾ എങ്ങനെ നിരീക്ഷിക്കും യഥാർത്ഥത്തിൽ മാഗ്നെറ്റിക് അറ്റത്ത് ഒരു തെളിച്ചമുണ്ട് ഇവ എങ്ങനെയാണ് കപ്പിൾഡ് സമവാക്യമാകുന്നത് അവയെ എങ്ങനെ വേർതിരിക്കാം ഉത്തരം യഥാർത്ഥത്തിൽ വളരെ ലളിതമാണ് അത് നോക്കുക μ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു അത് പരിഹരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ nu r H എന്നും H ഡാഷ് എന്നും വിളിച്ചു പക്ഷെ എനിക്ക് ഇപ്പോഴും അതിന്റെ കേൾ അറിയില്ല എനിക്ക് ∇ × H→ മാത്രമേ അറിയൂ എനിക്ക് രണ്ടാമത്തെ സമവാക്യം ഉപയോഗിക്കാൻ കഴിയില്ല രണ്ടാമത്തെ സമവാക്യം നിങ്ങൾ ചെയ്യുന്നതെന്തും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന സൂചനയാണ് എനിക്ക് ∇ × H→ മാത്രം എടുക്കണം അതിനാൽ ആദ്യ സമവാക്യത്തിന്റെ കേൾ എടുക്കുകയോ അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ഞാൻ എന്തുചെയ്യണം ഞാൻ മറുവശത്തേക്ക് μ എടുക്കുമെന്ന് കരുതുക അതിനാൽ ഞാൻ 1μr∇ × ∇ × E→ − jωμ0H→ ചെയ്യുന്നു എന്ന് കരുതുക എനിക്ക് ഇപ്പോൾ ഒരു കേൾ എടുക്കാമോ ഇരുവശത്തും അതിനാൽ എനിക്ക് ലഭിക്കും ∇ × 1μr ∇ × E→r − jωμ0∇ × H→ എന്നിട്ട് എനിക്ക് ഇവിടെ പകരം വയ്ക്കാം അതിനാൽ ഇത് ചെയ്യുന്നതിലൂടെ ഞാൻ H→ ഇല്ലാതാക്കുമായിരുന്നോ കാരണം അടുത്ത ഘട്ടത്തിൽ തന്നെ ഞാൻ മൈനസ് j ഒമേഗ എഴുതുന്നു ഞാൻ ഇവിടെ jωεrE→ J→ പകരം വയ്ക്കുന്നു അതിനാൽ എനിക്ക് ഇലക്ട്രിക് ഫീൽഡിൽ ഒരു സമവാക്യം ലഭിച്ചു അതിൽ പ്രശ്നത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ μr ഉം εr ഉം ആണ് ഞാൻ കൊടുക്കേണ്ട വില എന്താണ് ഇത് വളരെ മനോഹരമായ ഒരു പ്രയോഗമല്ല ഇത് തമാശയായി കാണപ്പെടുന്ന ചില വസ്തുക്കളുടെ കേളാണ് തുടർന്ന് ഇത് തുറക്കാൻ വെക്റ്റർ കാൽക്കുലസിന്റെ നിയമങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾ നൽകുന്ന വില ഡിസ്ക്രിറ്റൈസേഷൻ പരിഹരിക്കുന്നതിന് മുമ്പുള്ള വിശകലന ഫോർമുലേഷൻ കുറച്ചുകൂടി സങ്കീർണ്ണമാണ് എന്നാൽ നമുക്ക് കൂടുതൽ നിബന്ധനകൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ല നേരത്തെ ഈ കാര്യം വളരെ മനോഹരമായി − ∇2E ആയി മാത്രം ലളിതമാക്കി എന്നാൽ ഇപ്പോൾ എനിക്ക് കൂടുതൽ നിബന്ധനകൾ ഉണ്ടാകും അതിനാൽ നമ്മൾ ഒരു കാന്തിക മാധ്യമത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ സമവാക്യങ്ങൾ എടുക്കുക എന്നതാണ് നമുക്ക് ഒരു മാഗ്നെറ്റിക് മീഡിയം ഇല്ലെന്ന് നമുക്ക് അനുമാനിക്കാം എനിക്ക് വെറും മ്യൂ നോട്ട് ഉണ്ടെന്ന് അനുമാനിക്കാം നമ്മൾ E→ ൽ മാത്രം വേവ് ഇക്വേഷൻറെ ഹെൽംഹോൾട്ട്സ് എന്ന സമവാക്യം രൂപീകരിച്ചു H→ യിൽ എനിക്ക് ഇതേ കാര്യം ചെയ്യാൻ കഴിയുമോ എനിക്ക് ഒരു ∇2H→ രൂപീകരിക്കാമോ അതെ എന്ന് പറയുന്ന ഒരു ഉത്തരം എനിക്കുണ്ട് മറ്റാരെങ്കിലും അതിനാൽ ഞാൻ ചെയ്താൽ ∇× H→ അതാണ് ചെയ്യേണ്ടത് മ്യൂ നോട്ട് സ്ഥിരമായതിനാൽ ഇത് എനിക്ക് − ∇2H→ നൽകും കാരണം ∇ · H→ 0 എന്നാൽ മറുവശത്ത് എനിക്ക് എന്താണ് ഉള്ളത് എനിക്കൊരു jω∇ × εrE→ ഉണ്ട് ക്ഷമിക്കണം ഞാൻ മുഴുവൻ വീണ്ടും എഴുതി നമുക്ക് ഇത് എഴുതാം അതിനാൽ എനിക്ക് ∇ × ∇ × H→ ഉണ്ട് അതിനാൽ ഇത് jω∇ × εrE→ J→ ആണ് എനിക്ക് ഇത് തുടരാനാകുമോ എനിക്ക് ∇ × E→ ∇ × εrE→ എന്നിവ അറിയാമെങ്കിലും H→ യിൽ എനിക്ക് യഥാർത്ഥത്തിൽ ഒരു ഹെൽംഹോൾട്ട്സ് സമവാക്യം ലഭിക്കില്ല കാരണം എനിക്ക് ∇ × εrE→ അറിയില്ല ∇ × E→ മാത്രമേ അറിയൂ അതിനാൽ എനിക്ക് ഇത് ലളിതമാക്കാൻ കഴിയില്ല ഈ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് H→ ൽ ഒരു സമവാക്യം ലഭിക്കണമെങ്കിൽ ഇതുപോലെയുള്ള തന്ത്രം നിങ്ങളും ചെയ്യുമോ അതിനാൽ ഞാൻ ചെയ്യേണ്ടത് എനിക്ക് ഇവിടെ 1εr ലഭിക്കും ഒപ്പം ∇ × H→ എന്നിട്ട് നിങ്ങൾക്ക് ഒരു j ഉണ്ട് അത് എനിക്ക് ആവശ്യമില്ല അതായത് എനിക്ക് വേണ്ടത് ലളിതമാക്കാനുള്ള ചില വഴികളാണ് ഇപ്പോൾ എനിക്ക് കേൾ എടുക്കാം ഈ സമവാക്യത്തിൽ നിന്ന് ഞാൻ E→ ഒഴിവാക്കും അതിനാൽ എനിക്ക് ഇങ്ങനെ ലഭിക്കും ഞാൻ ഇപ്പോൾ ഒരു വില നൽകുന്നു എനിക്ക് എല്ലായിടത്തും ഒരു jε ഉണ്ട് എന്നാൽ നിങ്ങൾക്ക് H→ ൽ ഒരു ഹെൽംഹോൾട്ട്സ് സമവാക്യം ലഭിക്കണമെങ്കിൽ പരിഹരിക്കണമെങ്കിൽ ഈ ഫോമിനെ മറികടക്കാനുള്ള വഴികൾ ഇവയാണ് അതിനാൽ ഫോട്ടോണിക് ക്രിസ്റ്റൽ കമ്മ്യൂണിറ്റിയുടെ കാര്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ വളരെയധികം ചെയ്യപ്പെടുന്നു കോഴ്സിന് പിന്നീട് സമയമുണ്ടെങ്കിൽ അത് നോക്കാം പക്ഷേ ഇത് സാധാരണമാണ് ഇത് രൂപപ്പെടുത്താൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മാത്രമല്ല ഭൌതികശാസ്ത്രത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ സൌകര്യപ്രദമായതിനെ ആശ്രയിച്ച് ഈ വ്യത്യസ്ത ഫോർമുലേഷനുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഇത് ഉപരിതലത്തിലോ അതിർത്തിയിലോ ഉള്ള സമഗ്ര സമവാക്യങ്ങളെക്കുറിച്ചുള്ള ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു അവിടെ നമ്മൾ വേവ് ചെലവുകളുടെ പ്രചോദനത്തോടെ ആരംഭിച്ച് ഹ്യൂഗന്റെ Huygen's തത്വത്തിനായി ഈ ഗണിതശാസ്ത്ര പദപ്രയോഗം കണ്ടെത്തി അവിഭാജ്യ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നതിന് നമ്മൾ എസ്റ്റിൻഷൻ സിദ്ധാന്തം ഉപയോഗിക്കുന്നു അപ്പോൾ അവ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ ഗുണപരമായി ചർച്ച ചെയ്തു വരാനിരിക്കുന്ന മൊഡ്യൂളുകളിൽ നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ നോക്കും അതിനാൽ ഇതിനുള്ള റഫറൻസ് ച്യൂവിന്റെ വളരെ മനോഹരമായ ഒരു പുസ്തകമാണ് കൂടാതെ ഇൻഹോമോജീനിയസ് മീഡിയയിലെ വേവും ഫീൽഡും എന്ന പുസ്തകത്തിലെ എട്ടാം അധ്യായം അതിനാൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ∇ × ഏതെങ്കിലും വെക്ടറിന്റെ നിർവചനം എനിക്കറിയാമെന്ന് എനിക്കറിയാം അനാലിറ്റിക്കൽ ആയോ അക്കങ്ങളിൽ ആയോ ഞാൻ അത് കണക്കാക്കണം അതിനാൽ ഒഴിവാക്കലിൽ ആ രണ്ട് സമവാക്യങ്ങൾ എടുക്കുക അവിടെ നിന്നാണ് ബാധകമായ അതിർത്തി വ്യവസ്ഥ ശരിയാണ് വിദ്യാർത്ഥി എന്നാൽ അത് എന്താണ് അതിനാൽ നമുക്ക് ഇവ ലഭിച്ചുകഴിഞ്ഞാൽ ഒരിക്കൽ ഇത് ഉപയോഗിച്ച് ഇവ പരിഹരിക്കുന്നു എന്നതാണ് എസ്റ്റിൻഷൻ സിദ്ധാന്തം വിദ്യാർത്ഥി ശരിയാണ് നമ്മൾ അത് പരിഹരിക്കുന്നു നമുക്ക് ∇ϕ · nˆ ലഭിക്കും നമുക്ക് അത് ലഭിച്ചുകഴിഞ്ഞാൽ നമ്മൾ ഹ്യൂഗൻസ് Huygen's തത്വങ്ങളിലേക്ക് മടങ്ങുകയും ഇതിലേക്ക് പകരമാവുകയും ചെയ്യും അതിനാൽ എനിക്കിത് ഇപ്പോൾ അറിയാം എനിക്ക് എവിടെയും ഫീൽഡ് ലഭിക്കും അതിനാൽ രണ്ട് ഘട്ട പ്രക്രിയ ശരിയാണ്